ഈ സെഷനിലേക്ക് സ്വാഗതം ഇതുവരെ ഞങ്ങൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കുകളെക്കുറിച്ചും നിരവധി വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കുകളെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ സെഷനിൽ ഞങ്ങൾ ഒരു ഫോൾട്ട് അധിഷ്ഠിത ടെസ്റ്റിംഗ് ടെക്നിക്കായ മ്യൂട്ടേഷൻ ടെസ്റ്റിംഗിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു മ്യൂട്ടേഷൻ ടെസ്റ്റിംഗിൽ ആദ്യം ഒരു പ്രോഗ്രാമിൽ സംഭവിക്കുന്ന വിവിധ ഫോൾട്ട് വിഭാഗങ്ങൾ ആദ്യം തിരിച്ചറിയണമെന്നും തുടർന്ന് ഞങ്ങൾ മ്യൂട്ടേറ്റ് ചെയ്ത പ്രോഗ്രാമുകൾ സൃഷ്ടിക്കുന്നുവെന്നും അവിടെ ഞങ്ങളുടെ ടെസ്റ്റ് കേസുകൾ നല്ലതാണോയെന്ന് പരിശോധിക്കാൻ ഞങ്ങൾ ഒരു പ്രത്യേക തരം ഫോൾട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഞങ്ങൾ ടെസ്റ്റ് കേസുകൾ പ്രവർത്തിപ്പിക്കുകയും ഞങ്ങൾ അവതരിപ്പിച്ച ഫോൾട്ട് ടെസ്റ്റ് കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു ഇത് പിടിക്കപ്പെട്ടാൽ ഞങ്ങൾ പറയുന്നത് മ്യൂട്ടന്റ് ഡെഡ് ആയെന്നും ഞങ്ങളുടെ ടെസ്റ്റ് കേസുകൾ നല്ലതാണെന്നും എന്നാൽ മ്യൂട്ടന്റ് ലൈവ് ആണെങ്കിൽ അതിനർത്ഥം ഞങ്ങൾ അവതരിപ്പിച്ച ഈ ബഗ് പിടിക്കപ്പെടാതെ ഞങ്ങൾ ആദ്യം രൂപകൽപ്പന ചെയ്ത എല്ലാ ടെസ്റ്റ് കേസുകളും പാസ് ചെയ്തു എന്നാണ് തുടർന്ന് മ്യൂട്ടന്റ് ലൈവ് ആണെന്ന് ഞങ്ങൾ പറയുന്നു മ്യൂട്ടന്റ് കൊല്ലാൻ ഞങ്ങളുടെ ടെസ്റ്റ് സ്യൂട്ടിലേക്ക് അധിക ടെസ്റ്റ് കേസുകൾ ചേർക്കേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ ടെസ്റ്റ് കേസുകൾ ശക്തിപ്പെടുത്തുന്നു ഇപ്പോൾ പ്രോഗ്രാമിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന സാധാരണ തരം മ്യൂട്ടന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനാൽ മ്യൂട്ടേഷൻ ഓപ്പറേറ്റർമാരുടെ ഉദാഹരണം ഒരു സ്റ്റേറ്റ്മെൻറ് ഡിലീറ്റ് ചെയ്യുന്നു അതിനാൽ ഒരു നിർദ്ദിഷ്ട സ്റ്റേറ്റ്മെൻറ് ഇല്ലാതാക്കുമ്പോൾ നമുക്ക് ഒരു മ്യൂട്ടന്റ് ലഭിക്കും അതിനാൽ ഒരു പ്രോഗ്രാമർ ചെയ്ത സാധാരണ പ്രോഗ്രാം പിശകുകളായതിനാൽ ഞങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നു ഒരുപക്ഷേ അവൻ ചെയ്യാത്ത ചില സ്റ്റേറ്റ്മെൻറ്കൾ എഴുതാൻ അവൻ ആഗ്രഹിച്ചേക്കാം അതിനാൽ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ഒരു പ്രോഗ്രാമർ ചെയ്യുന്ന വിവിധ തരം ലളിതമായ പ്രോഗ്രാമിംഗ് ബഗുകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ചില ഉദാഹരണങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ് ഇല്ലാതാക്കുന്നു ഒരു അരിതമെറ്റിക് ഓപ്പറേറ്ററെ മാറ്റുന്നു കാരണം ഇവയും ഒരു സാധാരണ പ്രോഗ്രാമിംഗ് പിശക് ആണ് കാരണം പ്രോഗ്രാമർ തെറ്റായി മറ്റൊരു ഓപ്പറേറ്റർ എഴുതി തുടർന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരുപക്ഷേ ഒരു പ്ലസ് മൈനസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് മാറ്റി ഒരു കോൺസ്റ്റന്റ്ന്റെ മൂല്യം മാറ്റുക ഒരു ഡാറ്റ ടൈപ്പ് മാറ്റുക ഒരു റിലേഷണൽ ഓപ്പറേറ്റർ മാറ്റുക ഒരു റിലേഷണൽ ഓപ്പറേറ്ററുടെ ബൌണ്ട് മാറ്റുക തുടങ്ങിയവ അതിനാൽ ഒരു സ്റ്റേറ്റ്മെൻറ് നെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക ഉദാഹരണത്തിന് ഓപ്പറേറ്ററിന് തുല്യമായതിനേക്കാൾ കൂടുതലോ അതിൽ കുറവോ ഉള്ള ഒരു എക്സ്പ്രെഷന് പകരം ഒരു ട്രൂ മാറ്റിസ്ഥാപിക്കുക അതിനാൽ ആ പ്രയോഗം എല്ലായ്പ്പോഴും ട്രൂ ആയി മാറുന്നു അരിതമെറ്റിക് ഓപ്പറേറ്ററുടെ മാറ്റിസ്ഥാപിക്കൽ ഒരു വേരിയബിൾ മാറ്റിസ്ഥാപിക്കൽ a b c എഴുതുന്നതിനുപകരം ഒരു പ്രോഗ്രാമർ a d c എഴുതിയേക്കാവുന്ന ഒരു സാധാരണ പ്രോഗ്രാമിംഗ് പിശക് കൂടിയാണിത് അതിനാൽ ഈ വ്യത്യസ്ത തരം മ്യൂട്ടേഷൻ ഓപ്പറേറ്റർമാരെല്ലാം നടത്തപ്പെടുന്നു അത് ധാരാളം മ്യൂട്ടന്റുകൾ സൃഷ്ടിക്കുന്നു ഇപ്പോൾ എന്തുകൊണ്ടാണ് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം മ്യൂട്ടേഷൻ ടെസ്റ്റിന്റെ വിജയത്തിലേക്ക് നയിക്കുന്ന രണ്ട് ഹൈപ്പോത്തസിസ് ഉണ്ട് ഒന്നിനെ കോംപീറ്റന്റ് പ്രോഗ്രാമർ ഹൈപ്പോത്തസിസ് എന്നും രണ്ടാമത്തേതിനെ കപ്ലിംഗ് ഇഫക്റ്റ് എന്നും വിളിക്കുന്നു യോഗ്യതയുള്ള പ്രോഗ്രാമ കോംപീറ്റന്റ് പ്രോഗ്രാമർ ഹൈപ്പോത്തസിസ് പറയുന്നത് പ്രോഗ്രാമർമാർ മിക്കവാറും ശരിയായ പ്രോഗ്രാമുകൾ എഴുതുന്നു എന്നാണ് അവർ ജങ്ക് സ്റ്റേറ്റ്മെൻറ് എഴുതുന്നില്ല ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ ഒഴികെ അവർ ചെറിയ തെറ്റുകൾ വരുത്തുന്നു എന്നതൊഴിച്ചാൽ അർത്ഥവത്തായ പ്രോഗ്രാമുകൾ ശരിയാക്കുന്നു അതിനാൽ അത് ഒരു അനുമാനമാണ് രണ്ടാമത്തെ അനുമാനം അല്ലെങ്കിൽ രണ്ടാമത്തെ ഹൈപ്പോത്തസിസ് പ്രോഗ്രാമർ അവതരിപ്പിച്ച സങ്കീർണ്ണമായ പിശക് പോലെ പെരുമാറാൻ കഴിയുന്ന നിരവധി ലളിതമായ പിശകുകൾ ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു കൂട്ടം ലളിതമായ പിശകുകൾ ചില സങ്കീർണ്ണമായ പിശകുകൾക്ക് തുല്യമാണ് അതിനാൽ ഇവ രണ്ടും ഡിമിലോ 1978 നിർദ്ദേശിച്ചതും ഇവ രണ്ടും മ്യൂട്ടേഷൻ ടെസ്റ്റിംഗിന് പിന്നിലെ അടിസ്ഥാന സിദ്ധാന്തവുമാണ് ഈ രണ്ട് അനുമാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് പ്രവർത്തിക്കുന്നത് കോംപീറ്റന്റ് പ്രോഗ്രാമർ ഹൈപ്പോത്തസിസ് പ്രോഗ്രാമർ മിക്കവാറും ശരിയായ പ്രോഗ്രാമുകൾ എഴുതുന്നു നൂറുകണക്കിന് ആയിരക്കണക്കിന് ബഗുകൾ നിറഞ്ഞ ജങ്ക് പ്രോഗ്രാമുകൾ അവർ എഴുതുന്നില്ല ചില സ്റ്റേറ്റ്മെൻറ്കൾ പൂർണ്ണമായും അർത്ഥശൂന്യമാണ് അവർ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ എഴുതുന്നില്ല ചില ചെറിയ പ്രശ്നങ്ങൾ ഒഴികെയുള്ള മിക്കവാറും ശരിയായ പ്രോഗ്രാമുകൾ അവർ എഴുതുന്നു രണ്ടാമത്തെ അനുമാനം ഒരു പ്രോഗ്രാമർ ലളിതമായ ബഗുകൾക്ക് തുല്യമായ ഒരു സങ്കീർണ്ണ ബഗ് അവതരിപ്പിച്ചാലും എന്നാണ് കോംപീറ്റന്റ് പ്രോഗ്രാമർ ഹൈപ്പോത്തസിസ്സ് പ്രോഗ്രാമുകൾ ശരിയാക്കാൻ അടച്ചിട്ടുണ്ടെന്നും ചില ലളിതമായ പിശകുകളാൽ അവ ശരിയായ പ്രോഗ്രാമിൽ നിന്ന് വ്യത്യസ്തമാണെന്നും ഞങ്ങൾ പറഞ്ഞു മറുവശത്ത് കപ്ലിംഗ് എഫെക്ട് എല്ലാ സങ്കീർണ്ണമായ പിശകുകളും നിരവധി ലളിതമായ പിശകുകൾ മൂലമാണ് സംഭവിക്കുന്നതെന്നും അതിനാൽ ലളിതമായ പിശകുകൾ ഞങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സങ്കീർണ്ണമായ പിശകുകൾ പരിശോധിക്കാൻ അത് മതിയാകുമെന്നും പ്രോഗ്രാമിലെ സങ്കീർണ്ണമായ പിശക് അവതരിപ്പിക്കണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നു ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ ലളിതമായ തെറ്റുകൾ ഒരു പ്രോഗ്രാം പ്രോഗ്രാമർക്ക് ചെയ്യാൻ കഴിയുന്ന സങ്കീർണ്ണമായ പിശകുകൾ പോലും പിടിക്കാൻ പര്യാപ്തമാണ് ഇപ്പോൾ ഈ ഡയഗ്രം മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് പ്രക്രിയ കാണിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കവറേജ് ബേസ് ടെസ്റ്റിംഗിനെ അടിസ്ഥാനമാക്കി ഞങ്ങൾ ചില ഇനീഷ്യൽ ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്യുകയും തുടർന്ന് ഞങ്ങൾ ടെസ്റ്റ് കേസുകൾ പ്രവർത്തിപ്പിക്കുകയും തുടർന്ന് ടെസ്റ്റ് കേസുകൾ ചില ബഗുകൾ കണ്ടെത്തുകയാണെങ്കിൽ ഞങ്ങൾ പ്രോഗ്രാമിലേക്ക് ശരിയാക്കുകയും ഇപ്പോൾ ടെസ്റ്റ് കേസുകൾ ഞങ്ങളുടെ ടാർഗെറ്റുചെയ്ത കവറേജ് മാനദണ്ഡം തൃപ്തിപ്പെടുത്തുന്നത് MCDC ആകാം ഇൻഡിപെൻഡൻറ് അടിസ്ഥാന പാത്തോ കവറേജോ അല്ലെങ്കിൽ രണ്ടും ആകാം തുടർന്ന് ഞങ്ങൾ മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് പ്രക്രിയ ആരംഭിക്കുന്നു അതിനാൽ ധാരാളം മ്യൂറ്റന്റ്കളെ സൃഷ്ടിക്കുക തുടർന്ന് ഞങ്ങളുടെ ടെസ്റ്റ് കേസുകൾ ഉപയോഗിച്ച് ഞങ്ങൾ മ്യൂട്ടന്റ്കളെ പരീക്ഷിക്കുകയും ചില ടെസ്റ്റ് കേസുകൾ ഒരു മ്യൂട്ടേറ്റ് ചെയ്ത പ്രോഗ്രാമിനായി ഫിൽ ആവുകയും ചെയ്താൽ ഞങ്ങൾ പറയുന്നത് മ്യൂട്ടന്റ് മരിച്ചു ഞങ്ങൾ രൂപകൽപ്പന ചെയ്ത ഞങ്ങളുടെ ടെസ്റ്റ് കേസുകൾ മതി ഞങ്ങളുടെ ടെസ്റ്റ് കേസുകൾ വിജയിക്കുകയാണെങ്കിൽ മ്യൂട്ടന്റ് ജീവിച്ചിരിപ്പുണ്ടെന്നും ഞങ്ങളുടെ ടെസ്റ്റ് കേസുകൾ അത് പിടിക്കാൻ പര്യാപ്തമല്ലെന്നും ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ടെസ്റ്റ് കേസുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ ലൈവ് മ്യൂറ്റന്റ്കൾ ഉണ്ട് ഞങ്ങളുടെ ടെസ്റ്റ് കേസുകളിൽ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു അവ മതിയായതല്ല ഞങ്ങൾ അധിക ടെസ്റ്റ് കേസുകൾ സൃഷ്ടിക്കുന്നു ഞങ്ങൾ ധാരാളം മ്യൂട്ടന്റുകൾ സൃഷ്ടിക്കുന്നതുവരെ അങ്ങനെ തന്നെ തുടരുന്നു അടിസ്ഥാനപരമായി ഞങ്ങൾ രൂപകൽപ്പന ചെയ്ത ഇനീഷ്യൽ ടെസ്റ്റ് കേസുകൾ വിവിധ വിഭാഗങ്ങളുടെ ഫോൾട്ട്കൾക്ക് നല്ലതാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾ അവയെ ശക്തിപ്പെടുത്തുന്നു അതിനാൽ കവറേജ് ബേസ്ഡ് ടെസ്റ്റ് ടെക്നിക്കുകളേക്കാൾ മ്യൂട്ടേഷൻ ടെസ്റ്റിങ് കേസുകൾ ശക്തിപ്പെടുത്താനും പ്രോഗ്രാമുകളുടെ ഉയർന്ന വിശ്വാസ്യത ഉറപ്പാക്കാനും സഹായിക്കുന്നു ഒടുവിൽ ഞങ്ങൾ ധാരാളം മ്യൂട്ടന്റുകൾ സൃഷ്ടിച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് പൂർത്തിയായി ഭാഗ്യവശാൽ മ്യൂട്ടന്റുകളിൽ ടെസ്റ്റ് കേസുകൾ പ്രവർത്തിപ്പിക്കുന്ന മ്യൂട്ടന്റുകൾ വലിയ തോതിൽ ഓട്ടോമേറ്റഡ് ആകാം പക്ഷേ ഇതുവരെ ഞങ്ങൾ മ്യൂട്ടേഷൻ ടെസ്റ്റിങ് ന്റ്റെ വളരെ പോസിറ്റീവ് വശങ്ങൾ മാത്രമാണ് നോക്കിയത് മ്യൂട്ടേഷൻ ടെസ്റ്റിങ്ൽ ചില പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ ഇനിപ്പറയുന്ന രീതിയിൽ പ്രശ്നം പരാമർശിച്ചില്ല ഒരു പ്രശ്നത്തെ ഇക്വലന്റ് മ്യൂട്ടന്റ്സ് എന്ന് വിളിക്കുന്നു ഇവിടെ പ്രശ്നം നമ്മൾ ഒരു ബഗ് സൃഷ്ടിച്ചു ഞങ്ങൾ ഒരു മ്യൂട്ടന്റ് സൃഷ്ടിച്ചു ഒരു കോൺസ്റ്റന്റ് ന്റ്റെ മൂല്യം മാറ്റിയേക്കാം അല്ലെങ്കിൽ നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്കൾ പരസ്പരം മാറ്റിയേക്കാം എന്നാൽ സ്റ്റേറ്റ്മെൻറ്കൾ തമ്മിൽ യാതൊരു ഡിപെൻഡൻസി ഇല്ലാത്തതിനാൽ ഇന്റർചേഞ്ച് സ്റ്റേറ്റ്മെൻറ് ശരിക്കും ഒരു ബഗ് അല്ല ഒരു ഉദാഹരണമായിരിക്കാം അല്ലെങ്കിൽ ഈക്വൽ ഓപ്പറേറ്റർക്ക് പകരം ലെസ്സ് താൻ ഓപ്പറേറ്റർ ആയി മാറ്റിസ്ഥാപിക്കപ്പെടാം പക്ഷേ ഇപ്പോഴും അതിൽ എന്തെങ്കിലും ബഗ് ഉണ്ടാവണമെന്നില്ല കാരണം അതിൽ ലെസ്സ് താൻ ഓപ്പറേറ്റർ അവിടെ പ്രവർത്തിക്കും അതിനാൽ ഇവയെ ഇക്വലന്റ് മ്യൂട്ടന്റ്സ് എന്ന് വിളിക്കുന്നു ഞങ്ങൾ ഒരു പ്രോഗ്രാമിലേക്ക് മാറ്റം വരുത്തുമ്പോൾ പക്ഷേ അത് പ്രോഗ്രാമിലേക്ക് ഒരു ബഗ് അവതരിപ്പിക്കില്ല തുടർന്ന് ഞങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് കാരണം ടെസ്റ്റ് കേസുകൾ പ്രവർത്തിപ്പിച്ച ശേഷം ഞങ്ങൾ അനുമാനിക്കും കാരണം എന്തായാലും ബഗുകളില്ല ടെസ്റ്റ് കേസുകൾ പ്രോബ്ലം ഒന്നും കണ്ടെത്തില്ല എല്ലാ ടെസ്റ്റ് കേസുകളും കടന്നുപോകും അതിനാൽ മ്യൂട്ടന്റ് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞങ്ങൾ പറയും ഈ മ്യൂട്ടന്റ് കൊല്ലാൻ ആയി ധാരാളം ടെസ്റ്റ് കേസുകൾ എഴുതുന്നു എന്നാലും വിജയിക്കാതെ നമുക്ക് ശ്രമിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഒരു ബഗ് അല്ല ഇത് മ്യൂട്ടന്റ് ആണെങ്കിലും അത് ഇക്വലന്റ് മ്യൂട്ടന്റ് ആണ് മ്യൂട്ടേറ്റ് ചെയ്ത രൂപത്തിലുള്ള പ്രോഗ്രാം യഥാർത്ഥ പ്രോഗ്രാമിന് തുല്യമാണ് കാരണം ശരിയായ പ്രോഗ്രാം ഒരു ബഗുകളും അവതരിപ്പിക്കുന്നില്ല അതിനാൽ ഇത് സിൻടാക്റ്റിക്കലി അല്പം വ്യത്യസ്തമാണെങ്കിലും അത് അങ്ങന ബഗ്ഗി അല്ല ഇത് ബഗുകളുള്ള ഒരു പ്രോഗ്രാം അല്ല അതിനാൽ മ്യൂട്ടേറ്റ് ചെയ്ത പ്രോഗ്രാമും യഥാർത്ഥ പ്രോഗ്രാമും പരിശോധനയിലൂടെ വേർതിരിച്ചറിയാൻ കഴിയില്ല അതിനാൽ നമുക്ക് ഇക്വലെനറ്റ് മ്യൂട്ടന്റ് ഉള്ളപ്പോൾ ഞങ്ങളുടെ ടെസ്റ്റിംഗ് പ്രക്രിയ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് പ്രക്രിയ പ്രശ്നത്തിലാകും മ്യൂട്ടന്റ് ലൈവ് ആണെന്നും ടെസ്റ്റ് കേസുകൾ ആർഗ്യൂമെന്റ് ഇത് ഫ്ലാഗുചെയ്യും പക്ഷേ അവർ ഒരു ഫ്ലാഗ് നെ കുറിച്ച് ഗവേഷണം നടത്തുമ്പോഴെല്ലാം നമുക്ക് ഒരു ഇക്വലെനറ്റ് മ്യൂട്ടന്റ് ലഭിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ സ്വമേധയാ പരിശോധിക്കേണ്ടതുണ്ട് ഞങ്ങൾ വിഷമിക്കേണ്ടതില്ല ഈ പ്രത്യേക തരം ബഗിന് ടെസ്റ്റ് കേസുകൾ അപര്യാപ്തമാണെന്ന് ഞങ്ങളുടെ മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് പ്രക്രിയ ഉയർത്തിയ ഈ അലേർട്ട് ഞങ്ങൾ അവഗണിക്കും ഈ കേസിൽ ഇത് ഒരു ഉദാഹരണം മാത്രമാണ് i 5 ബ്രേക്ക്കൾക്ക് തുല്യമാണെങ്കിൽ നിങ്ങൾ ഗ്രേയിറ്റർ താൻ 5 ഗ്രേയിറ്റർ താൻ 5 ആയി ഇവിടെ മാറിയെങ്കിൽ ഇപ്പോൾ അവ യഥാർത്ഥത്തിൽ സമാനമാണ് കാരണം ഇവിടെ കടന്നുപോകുന്ന ടെസ്റ്റ് കേസ് ഞങ്ങൾ ഇവിടെയും കടന്നുപോകും ഇവ രണ്ടും തുല്യമാണെന്ന് ഞങ്ങൾ പറയുന്നു അതിനാൽ മ്യൂട്ടേഷൻ ടെസ്റ്റിംഗിലെ പ്രശ്നങ്ങളിൽ ഒരു വലിയ പ്രശ്നം ഇക്വലെനറ്റ് മ്യൂട്ടന്റ് ആണ് രണ്ടാമത്തെ പ്രശ്നം ഒരു നോൺ ട്രിവിയൽ പ്രോഗ്രാമിനായി നമുക്ക് കോടിക്കണക്കിന് അല്ലെങ്കിൽ ട്രില്യൺ മ്യൂട്ടന്റ്കളെ സൃഷ്ടിക്കാൻ കഴിയും തുടർന്ന് ഈ പ്രക്രിയ ഓട്ടോമേറ്റ് ചെയ്യാമെങ്കിലും ഇതിന് ധാരാളം സമയമെടുക്കാം കൂടാതെ ധാരാളം എററുകൾ ഫ്ലാഗ് ചെയ്യപ്പെടുന്നത് ഇക്വലെനറ്റ് മ്യൂട്ടന്റ് കാരണമാകാം കൂടാതെ നമുക്ക് ലളിതമായ സിൻടാക്റ്റിക് ഫോൾട്ട്കളും ചില തരം ഫോൾട്ട്കളും മാത്രമേ ഇൻജെക്റ്റ് ചെയ്യാൻ കഴിയൂ ഉദാഹരണത്തിന് അൽഗോരിതം ഫോൾട്ട്കളും മറ്റും ഞങ്ങൾക്ക് ഇവയും ആ തരത്തിലുള്ള ഫോൾട്ട്കളും ശരിക്കും പരിചയപ്പെടുത്താൻ കഴിയില്ല അൽഗോരിതം ഫോൾട്ട്കളും മറ്റും എടുത്താൽ കപ്ലിംഗ് എഫെക്ട് ശരിക്കും നിലനിൽക്കില്ല അതിനാൽ ഇത് ഫലപ്രദമാണ് പ്രോഗ്രാം എഴുതുമ്പോൾ പ്രോഗ്രാമർ ലളിതമായ പിശകുകൾ വരുത്തിയ ലളിതമായ പ്രോഗ്രാമിംഗ് ബഗുകളിൽ മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് വളരെ ഫലപ്രദമാണ് എന്നാൽ അൽഗോരിതം ബഗ്സ് പെർഫോമൻസ് ബഗുകൾ പോലുള്ള സങ്കീർണ്ണമായ ബഗുകൾ മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് അത്ര ഫലപ്രദമാകണമെന്നില്ല അതിനാൽ ഞങ്ങൾ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ മറ്റ് ടെസ്റ്റിംഗ് ടെക്നിക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മ്യൂട്ടേഷൻ ടെസ്റ്റിന്റെ പ്രയോജനം എന്താണ് ഒരു പ്രധാന പോരായ്മ എന്താണ് ഉത്തരം അത് ഓട്ടോമേഷനു വളരെ അനുയോജ്യമാണ് എന്നതാണ് അത് ഞങ്ങളുടെ ടെസ്റ്റ് സ്യൂട്ടിനെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു സാങ്കേതികതയാണ് ഞങ്ങൾ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ ടെസ്റ്റ് കേസുകൾ ശക്തിപ്പെടുത്തുന്നതിനും പ്രോഗ്രാമിന്റെ വിശ്വാസ്യതയും മെച്ചപ്പെടുത്തുന്നതിനും മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് നടത്താൻ കഴിയും കൂടാതെ ഒരു പ്രധാന പോരായ്മ ഇക്വലന്റ് മ്യൂട്ടന്റ് ആണെന്ന് ഞങ്ങൾ കണ്ടു അതിനാൽ ബ്ലാക്ക് ബോക്സ് ഫലപ്രദമായി ശക്തിപ്പെടുത്താനും കവറേജ് അധിഷ്ഠിത ടെസ്റ്റ് സ്യൂട്ടിനെ പ്രതികൂലമായി ശക്തിപ്പെടുത്താനും പ്രതികൂലതയ്ക്ക് ഇക്വലന്റ് മ്യൂട്ടന്റ്നു ഉള്ള പരിഹാരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇനി നമുക്ക് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് നോക്കാം ഇതുവരെ ഞങ്ങൾ യൂണിറ്റ് ടെസ്റ്റിംഗ് ബ്ലാക്ക് ബോക്സ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്നിവ നോക്കുന്നു അവിടെ ഞങ്ങൾ ഒരു പ്രോഗ്രാം യൂണിറ്റ് പരിശോധിക്കുന്നു ഒരു പ്രോഗ്രാം യൂണിറ്റ് സാധാരണയായി ഒരു ഫംഗ്ഷൻ ആണ് ഇത് ഒരു മൊഡ്യൂളും ആകാം ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഫംഗ്ഷൻ മൊഡ്യൂളുകൾ പരീക്ഷിച്ചുവെന്ന് കരുതുക ഇപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് നടത്താമെന്ന് നോക്കാം ഞങ്ങളുടെ ചർച്ചയുടെ തുടക്കത്തിൽ ഞങ്ങൾ എന്തുകൊണ്ട് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് നടത്തണം എന്തുകൊണ്ട് യൂണിറ്റ് ടെസ്റ്റിംഗ് നടത്തണം തുടർന്ന് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് നടത്തണം തുടർന്ന് സിസ്റ്റം പരിശോധന നടത്തണം എന്നു നോക്കും യൂണിറ്റ് പരിശോധനയിലെ ഏത് പ്രശ്നങ്ങളും ഫലപ്രദമായി ഡീബഗ് ചെയ്യാൻ ഇവ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഡീബഗ്ഗിംഗ് പ്രക്രിയയിൽ ബഗ് തിരയാൻ ഞങ്ങൾക്ക് വളരെ പരിമിതമായ സ്ഥലമുണ്ട് അതിനാൽ ഡീബഗ്ഗിംഗ് ചെലവ് കുറഞ്ഞതാണ് ഞങ്ങൾ യൂണിറ്റ് ടെസ്റ്റിംഗ് മറികടന്നിരുന്നുവെങ്കിൽ ആ ബഗുകൾ വളരെ വിലകുറഞ്ഞ രീതിയിൽ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ആ ബഗുകൾ ഇല്ലാതാക്കുന്നതിനുള്ള ഡീബഗ്ഗിംഗ് ചെലവ് ഞങ്ങൾക്ക് വലിയ ടെസ്റ്റിംഗ് ചെലവ് വരും അടുത്തതായി ചെയ്യേണ്ടത് ഞങ്ങൾ മൊഡ്യൂളുകളിൽ യൂണിറ്റ് ടെസ്റ്റിംഗ് നടത്തിയ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ മൊഡ്യൂളുകൾ ഇന്റർഫേസ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു അതിനാൽ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് സമയത്ത് യൂണിറ്റ് ഇന്റർഫേസ് ശരിയായി പരീക്ഷിച്ച വ്യത്യസ്ത മൊഡ്യൂളുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്ന ആ സ്റ്റേറ്റ്മെൻറ് ഞാൻ ആവർത്തിക്കട്ടെ യൂണിറ്റ് ടെസ്റ്റിംഗ് നടത്തുന്നതിലൂടെ അവിടെയുള്ള മിക്ക ബഗുകളും ഞങ്ങൾ ഇല്ലാതാക്കിയെന്ന് നമുക്കറിയാം മിക്കവാറും ബഗുകളില്ല പക്ഷേ ഞങ്ങൾ രണ്ട് മൊഡ്യൂളുകൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ ഇന്റർഫേസിൽ ബഗുകൾ ഉണ്ടാകാം അതിനാൽ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് വഴി ടാർഗെറ്റുചെയ്യുന്ന ടൈപ്പ് ബഗുകളുടെ ഒരു സൂചന അത് നൽകുന്നു അതിനാൽ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് സമയത്ത് കണ്ടെത്തിയ ബഗ് ടൈപ്പ് ഏതെന്ന് ഞങ്ങൾ ചോദിച്ചാൽ ഇവ രണ്ട് മൊഡ്യൂളുകൾക്കിടയിലുള്ള ഇന്റർഫേസ് ബഗുകളാണ് എന്താണ് ഇന്റർഫേസിംഗ് ഇന്റർഫേസിംഗ് എന്നത് ഒരു ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷനെ തെറ്റായ പരാമീറ്റർ ഉപയോഗിച്ച് വിളിക്കുന്നു അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ വിളിച്ചേക്കാം ഇത് കുറച്ച് പരാമീറ്ററുകൾ അല്ലെങ്കിൽ കൂടുതൽ പാരാമീറ്ററുകൾ ഉള്ള ഒരു ഫംഗ്ഷനെ വിളിക്കുന്നു അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ ടൈപ്പ് പൊരുത്തക്കേട് ഉണ്ട് ഒരു ഇന്റീജർ മൂല്യം ഉപയോഗിച്ച് ഫംഗ്ഷനെ വിളിക്കാൻ കരുതുക പക്ഷേ ഇത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് മൂല്യം അല്ലെങ്കിൽ ഒരു സ്ട്രിംഗ് ഉപയോഗിച്ച് വിളിക്കുന്നു അത് ഒരു ക്യാരക്റ്ററും മറ്റും പാസ് ചെയ്യുന്നു അതിനാൽ ഇവ ഇന്റർഫേസ് ബഗുകളുടെ ഉദാഹരണങ്ങളാണ് ഇവയാണ് ഇന്റേഗ്രേഷൻ ടെസ്റ്റിങ് ന്റ്റെ ലക്ഷ്യം ഇപ്പോൾ മൊഡ്യൂളുകൾ അല്ലെങ്കിൽ യൂണിറ്റുകൾ എങ്ങനെ പരസ്പരം വിളിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്റേഗ്രേഷൻ ടെസ്റ്റിങ് അവർ പരസ്പരം എങ്ങനെ വിളിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണ പ്രാതിനിധ്യം ഒരു സ്ട്രക്ചർ ചാർട്ട് ആണ് ഈ മൊഡ്യൂൾ സ്ട്രക്ചർ നമുക്ക് ലഭ്യമായികഴിഞ്ഞാൽ മൊഡ്യൂൾ സ്ട്രക്ചർ എങ്ങനെയാണ് അന്യോന്യം വിളിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിവിധ തരത്തിലുള്ള ഇന്റേഗ്രേഷൻ ടെസ്റ്റിങ് നടത്താം നമുക്ക് ബിഗ് ബാങ് സമീപനം ടോപ്പ് ഡൌൺ സമീപനം ബോട്ടം അപ്പ് സമീപനം മിക്സഡ് സമീപനം അല്ലെങ്കിൽ സാൻഡ്വിച്ച് സമീപനം എന്നിവ ഉണ്ടാകും ഇനി നമുക്ക് ഈ സമീപനങ്ങൾ നോക്കാം ഇത് ഒരു സ്ട്രക്ചർ രൂപകൽപ്പനയുടെ ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ മൊഡ്യൂളുകൾ പരസ്പരം എങ്ങനെ വിളിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് M1 M2 M3 M4 M2 എന്നിവ M5 M6 M5 എന്നിവ M8 M4 എന്നിവ M7 M9 എന്നിവയെ വിളിക്കുന്നു ഇതൊരു നല്ല ഡിസൈൻ ആണ് അത് ഒരു ശ്രേണിയിൽ മൊഡ്യൂളുകൾ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ലേയേർഡ് ഡിസൈൻ ആണ് എന്നാൽ M8 മുതൽ M6 അല്ലെങ്കിൽ M3 വരെ ഒരു കോൾ റിലേഷൻ ഉള്ള ഒരു സാഹചര്യവും നമുക്കുണ്ടാകാം രൂപകൽപ്പന ചെയ്ത പ്രോഗ്രാം ഇത് ഒരു വെൽ ഡിസൈൻ പ്രോഗ്രാമിന്റെ ഉദാഹരണമാണ് അവിടെ മൊഡ്യൂളുകൾ പരസ്പരം ശ്രേണിയിൽ വിളിക്കുന്നു ഒരു ടോപ്പ് ലെവൽ മൊഡ്യൂൾ ലോവർ ലെവൽ മൊഡ്യൂൾ വിളിക്കുന്നു കൂടാതെ ലോവർ ലെവൽ മൊഡ്യൂളിൽ നിന്ന് ടോപ്പ് ലെവൽ മൊഡ്യൂളിലേക്ക് ഒരു കോളും നിലവിലില്ല അതിനാൽ ഇത് വളരെ നല്ല ഡിസൈൻ ആണ് എന്നാൽ പിന്നീട് ഞങ്ങൾക്ക് മറ്റ് തരത്തിലുള്ള ഡിസൈൻ ഉണ്ടായിരിക്കാം അവിടെ ഞങ്ങൾക്ക് ലോവർ ലെവൽ മൊഡ്യൂളിനെ ടോപ്പ് ലെവൽ മൊഡ്യൂൾ വിളിക്കുന്നു എന്നാൽ മൊഡ്യൂൾ കോളിംഗ് സ്ട്രക്ചർ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഇന്റേഗ്രേഷൻ ടെസ്റ്റിങ് നടത്താൻ കഴിയുന്ന വ്യത്യസ്ത മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ മൊഡ്യൂളുകൾ ഒരുമിച്ച് ഇന്റേഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് തീരുമാനിക്കാം തുടർന്ന് ഈ മൊഡ്യൂളുകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കാം പക്ഷേ ഞങ്ങൾ 4 അല്ലെങ്കിൽ 5 മൊഡ്യൂളുകൾ ഒരു ഘട്ടത്തിൽ ഇന്റേഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകും ഒരു ടെസ്റ്റ് കേസ് അപ്പോൾ നമുക്ക് നിരവധി മൊഡ്യൂളുകൾ നോക്കേണ്ടി വരും അതിനാൽ മൊഡ്യൂളുകൾ നോൺ ട്രിവിയൽ ആണെങ്കിൽ വ്യത്യസ്ത ഇന്റർഫേസുകളെ പിന്തുണയ്ക്കുന്ന ന്യായമായ വലിയ മൊഡ്യൂളുകൾ ആണെങ്കിൽ ഞങ്ങൾ ഒരു മൊഡ്യൂൾ മാത്രമേ ഇന്റേഗ്രേറ്റ് ചെയ്യുകയുള്ളൂ എല്ലാ മൊഡ്യൂളുകളും ഒരു ഘട്ടത്തിൽ സംയോജിപ്പിച്ചിട്ടുണ്ടെന്ന് പേര് പറയുന്നതിനാൽ ആദ്യം നമുക്ക് ഇവിടെ ബിഗ് ബാങ് ഇന്റേഗ്രേഷൻ ടെസ്റ്റിങ് നോക്കാം അതിനാൽ എല്ലാ മൊഡ്യൂളുകളും ലിങ്ക് ചെയ്യുകയും കംപൈൽ ചെയ്യുകയും തുടർന്ന് ഇതിനായി ഞങ്ങൾ ടെസ്റ്റ് കേസുകൾ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവിടെ പ്രശ്നം എന്തെന്നാൽ രണ്ടോ മൂന്നോ ലളിതമായ മൊഡ്യൂളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബാങ് ടെസ്റ്റിംഗ് പ്രവർത്തിക്കൂ ഞങ്ങൾക്ക് നിരവധി ഡസൻ മൊഡ്യൂളുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ബിഗ് ബാങ് ടെസ്റ്റിംഗ് നടത്തുകയാണെങ്കിൽ ഞങ്ങളുടെ ഡീബഗ്ഗിംഗ് പ്രക്രിയ വളരെ വലുതായിരിക്കും എന്നതാണ് പോരായ്മ ഇതിന് വളരെ ഉയർന്ന ചിലവ് വരും അതിനാൽ ഒരു ഘട്ടത്തിൽ ഇന്റേഗ്രേറ്റ് ചെയ്യുന്ന ബിഗ് ബാങ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് വളരെ നിസ്സാരമായ പ്രോഗ്രാമുകൾ നമുക്ക് രണ്ടോ മൂന്നോ മൊഡ്യൂളുകൾ ലളിതമായ മൊഡ്യൂളുകൾ എന്നിവയുള്ള ടോയ് പ്രോഗ്രാമുകൾക്ക് മാത്രമേ ബാധകമാകൂ ഇപ്പോൾ നമുക്ക് മറ്റ് തരത്തിലുള്ള ബിഗ് ബാങ് ഇന്റേഗ്രേഷൻ മറ്റ് തരത്തിലുള്ള ടെസ്റ്റിങ് എന്നിവ നോക്കാം അതിനാൽ നിങ്ങൾ ഒരു ബിഗ് ബാങ് ടെസ്റ്റിങ് നടത്തുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞങ്ങൾ പറയുന്ന അതേ കാര്യം ഞങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് എറർ ഡീബഗ് ചെയ്യാനോ ലോക്കലൈസ് ചെയ്യാനോ വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ഒരു ടെസ്റ്റ് കേസ് കൃത്യമായി എവിടെയാണ് ബഗ് എന്ന് കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടുകഴിഞ്ഞാൽ ഡീബഗ്ഗിംഗ് പ്രക്രിയ വളരെ ചെലവേറിയതായിത്തീരുന്നു ഇനി നമുക്ക് ബോട്ടം അപ്പ് ഇന്റേഗ്രേഷൻ സാങ്കേതികത നോക്കാം ചുവടെയുള്ള ഇന്റേഗ്രേഷൻ ടെസ്റ്റിങ്ൽ ഈ മൊഡ്യൂൾ സ്ട്രക്ചർ എല്ലാ മൊഡ്യൂളുകളുടെയും ഒരു കോൾ സ്ട്രക്ചർ ആണ് അത് ബോട്ടം ലെവൽ നിന്ന് ആരംഭിക്കും ഞങ്ങൾക്ക് നന്നായി രൂപകൽപ്പന ചെയ്ത പ്രോഗ്രാം ഉണ്ടെങ്കിൽ താഴെയുള്ള ലെവലുകൾ നന്നായി നിർവചിക്കുകയും തുടർന്ന് അത് ഞങ്ങൾ എടുക്കുകയും ചെയ്യുന്നു ഏറ്റവും താഴെയുള്ള തലത്തിൽ ഒരു മൊഡ്യൂളും അതിനൊപ്പം മറ്റൊരു മൊഡ്യൂളും സംയോജിപ്പിക്കും എന്നാൽ ഞങ്ങൾ ഈ ഇന്റേഗ്രേഷൻ ചെയ്യുമ്പോൾ ഇവ താഴത്തെ നിലയിലുള്ള മൊഡ്യൂളായതിനാൽ ഡ്രൈവറുകൾ എന്ന് വിളിക്കപ്പെടുന്ന ചില സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഉണ്ടായിരിക്കണം അത് യഥാർത്ഥത്തിൽ ഈ താഴെയുള്ള മൊഡ്യൂളുകളെ വിളിക്കും അതിനാൽ ഇവിടെയുള്ള ഒരു പോരായ്മ എന്തെന്നാൽ ടെസ്റ്റ് എഞ്ചിനീയർമാർക്ക് സിസ്റ്റം ലെവൽ ഫംഗ്ഷനുകൾ നിരീക്ഷിക്കാൻ കഴിയില്ല അത് താഴെയുള്ള ലെവൽ മൊഡ്യൂളുകൾ മാത്രമാണ് പക്ഷേ ഒരു വലിയ കേസ് ഉണ്ടായിരിക്കാം അവർക്ക് വലിയ കേസ് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല അവർ ഇവിടെ ചില ഡമ്മി ടെസ്റ്റ് കേസുകൾ വളരെ ലളിതമായ ടെസ്റ്റ് കേസുകൾ അല്ലെങ്കിൽ ലോ ലെവൽ പ്രോഗ്രാമുകൾ പരീക്ഷിക്കുന്നു ക്ഷമിക്കണം ലോ ലെവൽ മൊഡ്യൂളുകൾ നിങ്ങൾക്ക് ഇതിനകം അറിയാവുന്നതുപോലെ ലോവർ ലെവൽ മൊഡ്യൂളുകൾ സാധാരണയായി ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂളുകളാണ് അത് ഒരു യൂസർ ഇൻപുട്ട് എടുക്കുന്ന ഒരു ലളിതമായ GUI ആയിരിക്കാം ഒരു ഫയലിൽ നിന്ന് കുറച്ച് ഡാറ്റ വായിക്കുകയോ ഒരു ഫയലിൽ കുറച്ച് ഡാറ്റ എഴുതുകയോ അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസിൽ എന്തെങ്കിലും പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്ന ലളിതമായ ഫയൽ റീഡർ ആയിരിക്കാം ഇത് അതിനാൽ ശ്രേണിയുടെ ഏറ്റവും താഴെയുള്ള താഴത്തെ ലെവൽ മൊഡ്യൂളുകളാണ് ഇവ അവർ ചില ലളിതമായ ഇൻപുട്ട് ഔട്ട്പുട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ അതിനാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് ശരിക്കും സിസ്റ്റം ലെവൽ ടെസ്റ്റ് കേസുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല ചുവടെയുള്ള ടെസ്റ്റിംഗ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഞങ്ങൾ ഇവിടെ ഒരു മൊഡ്യൂൾ എടുത്ത് അതിനെ മറ്റൊരു മൊഡ്യൂളുമായി സമന്വയിപ്പിക്കുന്നു കാരണം അതേ തലത്തിലുള്ള മൊഡ്യൂളുകളൊന്നും ഉയർന്ന ലെവൽ മൊഡ്യൂളുമായി സംയോജിപ്പിച്ചിട്ടില്ല തുടർന്ന് ഞങ്ങൾ മറ്റൊരു മൊഡ്യൂളുമായി സംയോജിപ്പിക്കുന്നു ഈ ലെവൽ കൂടാതെ തുടർന്ന് അടുത്ത മൊഡ്യൂളും തുടർന്ന് അടുത്ത മൊഡ്യൂളും സമ്യോജിപ്പിക്കുന്നു തുടർന്ന് ഞങ്ങൾ റൂട്ട് ലെവൽ മൊഡ്യൂൾ പൂർത്തിയാക്കുന്നതുവരെ അടുത്ത ഉയർന്ന ലെവൽ മൊഡ്യൂൾ സംയോജിപ്പിക്കുന്നു അതിനാൽ ഞങ്ങൾ ചില അടിസ്ഥാന ഇന്റേഗ്രേഷൻ ടെസ്റ്റിങ് സാങ്കേതിക വിദ്യകൾ നോക്കി അടുത്ത സെഷനിൽ നമ്മൾ കൂടുതൽ ഇന്റേഗ്രേഷൻ ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ നോക്കും